NPTEL ലെ ഓൺലൈൻ സോഷ്യൽ മീഡിയ കോഴ്സിലെ സ്വകാര്യതയിലേക്കും സുരക്ഷയിലേക്കും സ്വാഗതം ഞാൻ ഡൽഹി ഐഐഐടിയിൽ ഫാക്കൽറ്റിയാണ് ഞാൻ കാർനെഗീ മെലോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിഎച്ച്ഡി നേടി സ്വകാര്യത സുരക്ഷ കമ്പ്യൂട്ടേഷണൽ സോഷ്യൽ സയൻസ് ഡാറ്റാ സയൻസ് സോഷ്യൽ കമ്പ്യൂട്ടിംഗ് ചുറ്റുമുള്ള വിഷയങ്ങൾ എന്നിവയാണ് എന്റെ പ്രധാന താൽപ്പര്യ മേഖല ഞാൻ ഡൽഹി ഐഐഐടിയിലെ സൈബർ സുരക്ഷാ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രത്തിന്റെ ഭാഗമാണ് ഈ വിഷയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഓൺലൈൻ സോഷ്യൽ മീഡിയ കമ്പ്യൂട്ടേഷണൽ സോഷ്യൽ സയൻസ് ഡാറ്റാ സയൻസ് സോഷ്യൽ കമ്പ്യൂട്ടിംഗ് ഉപയോഗയോഗ്യമായ സാങ്കേതികവിദ്യകൾ എന്നിവയിൽ പ്രാഥമികമായി പ്രവർത്തിക്കുന്ന പ്രീകോഗ് എന്ന റിസർച്ച് ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഞാൻ ഇത് ഞാൻ ഒന്നര വർഷം മുമ്പ് ഡെൽഹി ഐഐഐടിയിൽ ചെയ്ത വിദ്യാർത്ഥികൾ നൽകുന്ന കോഴ്സ് ഫീഡ്ബാക്ക് സംബന്ധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ഞാൻ ഈ കോഴ്സ് ഡൽഹി ഐഐഐടിയിൽ ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ പി എം സ്വകാര്യതയും സുരക്ഷയും പഠിപ്പിക്കുന്നു അതിനാൽ ഇതാണ് കോഴ്സിനൊപ്പം ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് ഉണ്ട് വിദ്യാർത്ഥികൾ അവരുടെ പദ്ധതി അവതരിപ്പിക്കുന്ന ഒരു പോസ്റ്റ് സെഷൻ ഞങ്ങൾക്കുണ്ട് ഒരു പോസ്റ്റർ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഡെമോ രൂപത്തിൽ അതിനാൽ ക്ലാസിലെ എല്ലാ വിദ്യാർത്ഥികളും ഒരേ ടി ഷർട്ട് ധരിച്ച് യഥാർത്ഥത്തിൽ ഈ പ്രോജക്ടുകൾ വിലയിരുത്താൻ വന്ന ബാഹ്യ മൂല്യനിർണ്ണയക്കാരുമൊത്തുള്ള ചിത്രമാണിത് അതിനാൽ ഈ കോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് ഈ കോഴ്സിന്റെ അനന്തരഫലങ്ങളിൽ ചിലത് കോഴ്സിന്റെ അവസാനം നിങ്ങൾക്ക് സ്വകാര്യത സുരക്ഷാ ആശങ്കകൾ സ്പാം ഫിഷിംഗ് വഞ്ചന ഐഡന്റിറ്റി മോഷണം ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകളിലെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് ഓൺലൈൻ സോഷ്യൽ മീഡിയയിലെ സുരക്ഷയുടെയും സ്വകാര്യതയുടെയും വ്യത്യസ്ത വശങ്ങളാണ് ഈ കോഴ്സിന്റെ പ്രാഥമിക ശ്രദ്ധ കോഴ്സിലുടനീളം ഫേസ്ബുക്ക് ട്വിറ്റർ തുടങ്ങിയ ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്ന് ഡാറ്റ ശേഖരിക്കാനും നിങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡാറ്റ വിശകലനം ചെയ്യുകയും ദൃശ്യവൽക്കരിക്കുകയും ചെയ്യാനും സാധിക്കും ഉദാഹരണത്തിന് ട്വിറ്ററിൽ എനിക്ക് പിന്തുടരുന്നവർ യഥാർത്ഥത്തിൽ നിയമാനുസൃതമാണോ അതോ വ്യാജമാണോ എന്ന് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അസൈൻമെന്റുകളിലൂടെ ഡാറ്റ ശേഖരിക്കാനും വിശകലനം ചെയ്യാനും ദൃശ്യവൽക്കരിക്കാനും കഴിയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കു ഈ ലക്ഷ്യം നേടാൻ കഴിയും നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ കോഴ്സിലെ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഓൺലൈൻ ഫോറത്തിലേക്കുള്ള ഒരു ലിങ്ക് ഇതാ നിങ്ങൾ പങ്കെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഒരു ചോദ്യമോ ഉത്തരമോ പോസ്റ്റുചെയ്യുമെന്നും അഭിപ്രായമിടണമെന്നും മറ്റും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ക്ലാസിന് പുറത്ത് സജീവമായിരുന്ന ആളുകൾ ക്ലാസിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് കാണിക്കാൻ ഗവേഷണ സാഹിത്യമുണ്ട് അതിനാൽ ചില അസൈൻമെന്റുകളിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആഴ്ചയിൽ ഒരു ഗൃഹപാഠം നിയമിക്കുക ക്ലാസ്സിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയ വിഷയങ്ങൾ പ്രഭാഷണത്തിൽ പിടിച്ചെടുക്കുക ഓരോ ആഴ്ചയും നമുക്ക് ഗൃഹപാഠ ചോദ്യങ്ങൾ ഉണ്ടാകും ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുക ഈ ഡാറ്റ ഉപയോഗിച്ച് എന്ത് വിശകലനം നടത്താം ഡാറ്റ എങ്ങനെ ദൃശ്യവൽക്കരിക്കാം അതുപോലുള്ള കാര്യങ്ങൾ എന്നിവ പോലുള്ള വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മിക്കവാറും ഈ ചോദ്യങ്ങൾ സ്ലൈഡുകളിൽ നിന്നായിരിക്കും ചില പ്രോഗ്രാമിംഗ് നിങ്ങൾ ഫോറത്തിൽ ചർച്ച ചെയ്യുന്ന പോയിന്ററുകളിലെ പ്രഭാഷണങ്ങൾക്ക് പുറത്തുള്ള ഉള്ളടക്കം നിങ്ങൾ ശരിക്കും വായിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന എന്തെങ്കിലും ഈ വിഷയത്തിൽ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ രസകരമാക്കുന്നതിനും കൂടുതൽ ആവേശകരമാക്കുന്നതിനും എന്തെങ്കിലും ചെയ്യാനും ഞാൻ പദ്ധതിയിടുന്നു കൂടാതെ എനിക്ക് ഹാങ്ഔട്ൽ ഓൺലൈനിൽ ആയിരിക്കാവുന്ന ചില ഓഫീസ് സമയങ്ങളും ആസൂത്രണം ചെയ്യുന്നു അവിടെ നിങ്ങൾക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം അല്ലെങ്കിൽ തീർച്ചയായും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും ഫോറം ഉപയോഗിക്കാം ഇത് അടിസ്ഥാനപരമായി നിങ്ങൾ ട്വിറ്ററിലും മറ്റ് സോഷ്യൽ നെറ്റ്വർക്കുകളിലും കേട്ടിരിക്കാം അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാകാം ഹാഷ്ടാഗ് AskMe സെഷനുകൾ എന്ന പോലെയാണ് എന്നോട് നേരിട്ട് സംവദിക്കാനും ഇത് നിങ്ങളെ അനുവദിക്കും മിക്കവാറും ഹാങ്ഔട്ട്ടിൽ വീഡിയോ സെഷനുകൾ പരീക്ഷിച്ചേക്കാം ഡൽഹി ഐഐഐടിയിൽ ചില ഓപ്പൺ ലാബ് സെഷനുകൾ നടത്താനും ഞാൻ പദ്ധതിയിടുന്നു ഇത് കൂടുതലും ഡൽഹിയിലും പരിസരത്തും ഉള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് നിങ്ങൾ ഡൽഹിയിലാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്ന ഒരു നിശ്ചിത സമയത്ത് നിങ്ങൾക്ക് കാമ്പസിൽ ഹാജരാകുക ടിഎ ലഭിക്കാവുന്ന ഓപ്പൺ ലാബ് സെഷനുകളിൽ ചേരുക മറ്റുള്ളവർ നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും കോഴ്സ് നന്നായി ചെയ്യാൻ സഹായിക്കുകയും ചില ആശയങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യും നിങ്ങളിൽ ചിലർ മെയിലിംഗ് ലിസ്റ്റിൽ സ്വയം പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇതിനകം കണ്ടു ഈ കോഴ്സിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള 1500 ലധികം വിദ്യാർത്ഥികൾ ഉണ്ട് എന്നത് വളരെ സന്തോഷകരമാണ് നിങ്ങളിൽ ഭൂരിഭാഗവും നിങ്ങളെ ഫോറത്തിൽ പരിചയപ്പെടുത്തുന്നത് നന്നായിരിക്കും അതിന്റെ പ്രധാന കാരണം നിങ്ങൾ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത ക്ലാസ്സിനുള്ള പാഠ്യപദ്ധതി തയ്യാറാക്കാൻ എന്നെ സഹായിക്കുന്നു ഈ ക്ലാസ് എടുക്കുന്ന വിദ്യാർത്ഥികളുടെ വിതരണത്തിന്റെ അനുപാതം എനിക്കറിയാമെങ്കിൽ ഉചിതമായ സൂചനകൾ നൽകാൻ പാഠ്യപദ്ധതി തയ്യാറാക്കാൻ ഇത് എന്നെ സഹായിക്കും ഞാൻ എന്തിനാണ് ഈ ക്ലാസ് പഠിപ്പിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ ക്ലാസ് ഡൽഹി ഐഐഐടിയിൽ രണ്ടുതവണ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിനുമുമ്പ് ഈ ക്ലാസ്സ് പഠിപ്പിക്കാൻ തുടങ്ങിയ ഞാൻ ഈ കോഴ്സ് പഠിപ്പിക്കുന്നതിൽ വളരെ രസകരമാകുന്ന കാര്യങ്ങൾ ചെയ്തു ബ്രസീലിലെ യൂണിവേഴ്സിഡേഡ് ഫെഡറൽ ഡി മിനാസ് ജെറൈസ് എന്ന UFMG യിൽ ഞാൻ ഒരു വർക്ക് ഷോപ്പ് നടത്തി ഓൺലൈൻ സോഷ്യൽ മീഡിയയിലെ സ്വകാര്യതയും സുരക്ഷിതത്വവും എന്ന വിഷയത്തിൽ ഞാൻ ചില വർക്ക് ഷോപ്പുകൾ നടത്തിയിട്ടുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കിലെ കോൺഫറൻസ് എന്ന കോൺഫറൻസായി പരിവർത്തനം ചെയ്തു 2012 ലും 2013 ലും വേനൽക്കാലത്ത് ഒരു മുഴുവൻ ക്രെഡിറ്റ് കോഴ്സായ ബ്രസീലിൽ ഞാൻ ഈ ക്ലാസും പഠിപ്പിച്ചിട്ടുണ്ട് ടീച്ചിംഗ് അസിസ്റ്റന്റുമാരെ ഞാൻ മാത്രമല്ല നിങ്ങൾ മുഴുവൻ കോഴ്സും കേൾക്കാൻ പോകുന്നത് ടീച്ചിംഗ് അസിസ്റ്റന്റുമാർ ചോദ്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും ചില ലാബ് സെഷനുകൾ ചെയ്യുന്നതിനും ആവശ്യമായ ഇടങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ഉള്ളടക്കം നൽകുന്നതിനും ഗൃഹപാഠവും അതുപോലുള്ള കാര്യങ്ങളും സൃഷ്ടിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കും ഇപ്പോൾ ഞങ്ങൾക്ക് ഡൽഹിയിൽ ഐഐഐടിയിൽ എന്റെ പിഎച്ച്ഡി വിദ്യാർത്ഥികളായ മുഴുവൻ അതിശയകരമായ ടിഎ ഉണ്ട് ഉദാഹരണത്തിന് അനുപമ അഗർവാൾ സോഷ്യൽ നെറ്റ്വർക്കുകളിലെ സാമൂഹിക പ്രശസ്തി മനസ്സിലാക്കുക എന്നതാണ് അവരുടെ പ്രാഥമിക താൽപ്പര്യം അതാണ് സൃഷ്ടി ഗുപ്ത അവരുടെ പ്രാഥമിക താൽപ്പര്യം ഓൺലൈൻ സോഷ്യൽ മീഡിയയും ലഭ്യമായ ഫോണും ഒടിടി തരത്തിലുള്ള സാങ്കേതികവിദ്യകളുമാണ് അതാണ് പ്രതിക് ഫെയ്സ്ബുക്കിൽ ക്ഷുദ്രകരമായ ഉള്ളടക്കം പഠിക്കാൻ താൽപ്പര്യമുണ്ട് അതാണ് നിഹാരിക സച്ച്ദേവ അവരുടെ താൽപ്പര്യം പ്രാഥമികമായി ദൃശ്യമായ സുരക്ഷയിലും സാങ്കേതികവിദ്യയും സോഷ്യൽ നെറ്റ്വർക്കുകളും എങ്ങനെയാണ് ലോകമെമ്പാടുമുള്ള പോലീസ് സംഘടനകൾ പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് അതിനാൽ ഈ നാല് ടിഎകൾ ലാബ് സെഷനുകൾ ചെയ്യുന്നതിനും ഗൃഹപാഠത്തിനുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ സജ്ജീകരിക്കുന്നതിനും പൊതുവെ ഞങ്ങളെ സഹായിക്കുന്നതിനും കോഴ്സ് കൂടുതൽ ആവേശകരവും രസകരവുമാക്കാൻ സഹായിക്കും ഇപ്പോൾ ഈ കോഴ്സിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്ന വിഷയങ്ങൾ നോക്കാം തുടക്കത്തിൽ ഞാൻ ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകളുടെ വിവിധ വശങ്ങൾ വിവരിക്കും ലഭ്യമായ വ്യത്യസ്ത സോഷ്യൽ നെറ്റ്വർക്കുകൾ ഏതൊക്കെയാണ് ജനപ്രിയമായത് ഈ സോഷ്യൽ നെറ്റ്വർക്കുകളിലേക്ക് ഞങ്ങൾ കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കാൻ തുടങ്ങുന്നതിനുമുമ്പ് നിങ്ങൾ ഏതുതരം നിബന്ധനകൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് പൈത്തൺ സ്ഥാപിക്കുന്നതിനുള്ള അനുഭവം ലഭിക്കും ട്വിറ്റർ എ ൽ നിന്ന് ഡാറ്റ എങ്ങനെ ശേഖരിക്കാമെന്ന് മനസിലാക്കുക മോംഗോ ഡിബി മൈ സ് ക്യൂഎൽ ൽ ഞങ്ങൾ എങ്ങനെ ഡാറ്റ സംഭരിക്കും ഇത് എങ്ങനെ സജ്ജീകരിക്കാമെന്ന് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്ന ഒരു ലാബ് സെഷൻ പോലെയാകും ഇത് പിന്നീട് കോഴ്സിൽ ഞങ്ങൾ വിശ്വാസവും വിശ്വാസ്യതയും നോക്കാൻ തുടങ്ങും അതായത് ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്യുന്ന ഉള്ളടക്കം നിങ്ങൾക്ക് എത്രത്തോളം ഇല്ലാതാക്കാൻ കഴിയും എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു പോസ്റ്റ് വിശ്വസനീയമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ഏതുതരം വിദ്യകൾ ലഭ്യമാണ് ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകളിലെ സ്വകാര്യത പ്രശ്നങ്ങൾ ഞങ്ങൾ നോക്കും ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകളുടെ വ്യാപനം കാരണം സ്വകാര്യത അത്ര വലിയ വിഷയമായി മാറുകയാണ് എന്ത് വിവരങ്ങളാണ് ചോർന്നത് ഏത് വിവരങ്ങളാണ് യഥാർത്ഥത്തിൽ സമാഹരിക്കാൻ കഴിയുക ഒരു പ്രൊഫൈൽ ഉപയോക്താവിനെ സൃഷ്ടിക്കാൻ എന്ത് വിവരങ്ങൾ ഒന്നിച്ച് തുന്നിച്ചേർക്കാം അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യാനാകുമോ സോഷ്യൽ നെറ്റ്വർക്കിനുള്ള ഉള്ളടക്കം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന സോഷ്യൽ നെറ്റ്വർക്ക് വിശകലനം ടെക്സ്റ്റ് അനലിറ്റിക്സ് എന്നിവയും ഞങ്ങൾ നോക്കും സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്നുള്ള ഉള്ളടക്കം വിശകലനം ചെയ്യാൻ ഞങ്ങൾ നിങ്ങളെ തുറന്നുകാട്ടുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് എൻഎൽടികെ ഇത് വീണ്ടും ഒരു ഹാൻഡ് ഓൺ സെഷനായിരിക്കും അവിടെ ഈ ടൂളുകൾ കോഴ്സിലെ ഉള്ളടക്കത്തിൽ നിന്നുള്ള ടെക്നിക്കുകൾ എന്നിവ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് അനുഭവം ലഭിക്കും ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകളുടെ പശ്ചാത്തലത്തിൽ വളരെ ബന്ധപ്പെട്ടതും വളരെ പ്രധാനപ്പെട്ടതുമായ വിഷയമായ ഇ ക്രൈം ഞങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് കോഴ്സിന്റെ ഈ ഭാഗത്ത് നിങ്ങൾ ഫിഷിംഗ് നോക്കും വ്യാജ ഉള്ളടക്കവും വ്യാജ അക്കൌണ്ടുകളും അനുബന്ധ വിഷയങ്ങളും ഞങ്ങൾ നോക്കും ഇതിവൃത്തത്തോടുകൂടിയ ഗ്രാഫ് വരയ്ക്കൽ ഹൈചാർട്ടുകളുപയോഗിച്ച് ഡാറ്റ വിശകലനം ഉയർന്ന ചാർട്ടുകളുള്ള ഗ്രാഫ് സൃഷ്ടിക്കൽ ജിയോ ലൊക്കേഷൻ വിശകലനം എന്നിവയെ കുറിച്ചും ഞങ്ങൾ നിങ്ങൾക്ക് ചില വിശദാംശങ്ങൾ നൽകും കോഴ്സ് സമയത്ത് യഥാർത്ഥമായിരിക്കും ജിയോ ലൊക്കേഷനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കും ഇത് പോസ്റ്റ് ചെയ്ത ഒരു പ്രത്യേക സ്ഥലത്തുനിന്നുള്ള അക്ഷാംശ രേഖാംശമാണ് അതിനാൽ ഇതുപോലുള്ള ഉയർന്ന ചാർട്ട് എൻഎൽടികെ ഓറ പോലുള്ള സോഷ്യൽ നെറ്റ്വർക്ക് വിശകലന ഉപകരണങ്ങൾ എന്നിവ നിങ്ങൾക്ക് വളരെ മികച്ച അനുഭവമായിരിക്കും അവിടെ ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകൾക്ക് പ്രസക്തമായ എന്തും വിശകലനം ചെയ്യാൻ നിങ്ങൾക്ക് ധാരാളം മാർഗങ്ങൾ ലഭിക്കും അടുത്തതായി ഇന്ത്യയിലെ പോലീസിംഗിനെ നമ്മൾ നോക്കുന്നു പ്രത്യേകിച്ചും ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകൾ പോലീസ് ഓർഗനൈസേഷനുകൾക്ക് പൌരന്മാരുമായി ഇടപഴകുന്നതിനുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമായി മാറിയെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനാൽ സമൂഹത്തെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിന് പോലീസ് സംഘടനകൾ ഈ ഓൺലൈൻ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് നമ്മൾ പഠിക്കും കൂടാതെ പോലീസ് ഓർഗനൈസേഷനുകളുമായി ഇടപെടാൻ പൌരന്മാർ സോഷ്യൽ നെറ്റ്വർക്കുകൾ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും നമ്മൾ പരിശോധിക്കും നമ്മൾ ഇന്ത്യൻ സന്ദർഭം മാത്രമല്ല ലോകത്തിലെ വിശാലമായ സന്ദർഭങ്ങളും സംഘടനകൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നതും നോക്കും ഐഡന്റിറ്റി റെസല്യൂഷന്റെ ഈ മുഴുവൻ വിഷയവും നമ്മൾ ഉൾക്കൊള്ളും അത് എന്റെ കാര്യത്തിൽ എന്റെ ഫേസ്ബുക്ക് ഹാൻഡിൽ പൊന്നുരംഗം കുമാരഗുരു എന്റെ ട്വിറ്റർ ഹാൻഡിൽ പോങ്കുരു എന്റെ യൂട്യൂബ് അക്കൌണ്ട് പി ഈ മൂന്ന് അക്കൌണ്ടുകളും യഥാർത്ഥത്തിൽ ഒന്നുതന്നെയാണോ എന്ന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ് അതിനാൽ ആളുകൾ സൃഷ്ടിച്ച ചില ഐഡന്റിറ്റി റെസല്യൂഷൻ ടെക്നിക്കുകൾ ഞങ്ങൾ നോക്കും ഈ അക്കൌണ്ടുകൾ നമുക്ക് എങ്ങനെ ഒരുമിച്ച് ചേർക്കാം ഒന്നിലധികം കാരണങ്ങളാൽ ഇത് വളരെ ഉപയോഗപ്രദമാകും അതിലൊന്നാണ് പരസ്യങ്ങൾ യഥാക്രമം ഉചിതമായി അവതരിപ്പിക്കുന്നത് പരസ്യ ഏജൻസികൾക്ക് ഉപകാരപ്രദമാകുമെന്നതാണ് ഒന്നിലധികം സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ഒരേ വ്യക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് തീരുമാനമെടുക്കാനും ഇത് ഉപയോഗപ്രദമാകും കോഴ്സിന്റെ അവസാനം ആഴത്തിലുള്ള പഠനം മെഷീൻ ലേണിംഗ് ദേശീയ ഭാഷാ പ്രോസസ്സിംഗ് ഇമേജ് വിശകലനം എന്നിവ പോലുള്ള ഈ കോഴ്സിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സോഷ്യൽ നെറ്റ്വർക്കുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വളരെ വിശാലമായ ചില ചോദ്യങ്ങളും വളരെ വിശാലമായ വിഷയങ്ങളും നമ്മൾ അവലോകനം ചെയ്യും സോഷ്യൽ നെറ്റ്വർക്കിന്റെ വ്യാപനവും ഈ ഡാറ്റ എന്താണെന്നും ഈ ഡാറ്റ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നും മനസിലാക്കുന്നതിനാലും ഈ വിഷയങ്ങൾ സോഷ്യൽ നെറ്റ്വർക്ക് ഡാറ്റ ഉപയോഗിക്കുന്നതിൽ വളരെ പ്രചാരത്തിലുണ്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇമേജ് വിശകലനവും പ്രാധാന്യമർഹിക്കുന്നു കാരണം മിക്കവാറും ഈ ദിവസങ്ങളിൽ പോസ്റ്റുകൾ ചിത്രങ്ങളുമായി വരുന്നു ഇത് വാചകം മാത്രമല്ല വാസ്തവത്തിൽ ഇത് വാചകവും ചിത്രങ്ങളും അല്ലെങ്കിൽ ചിലപ്പോൾ ചിത്രങ്ങൾ മാത്രമാണ് അതിനാൽ ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്ക് വിഷയത്തെ ചുറ്റിപ്പറ്റിയുള്ള ഈ പുതിയ വിഷയങ്ങളുടെ വളരെ വിശാലമായ പര്യടനമായിരിക്കും ഇത്